എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള മൂക്ക് എൻ എൽ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കാൺപൂർ ഐ ടിയിൽ നിന്നുള്ള രവിചന്ദ്രനാണ് അതിനാൽ ഞാൻ നിങ്ങൾക്കുള്ള കോഴ്സ് ഇൻസ്ട്രക്ടറാണ് ഇതോടെയാണ് ഞങ്ങൾ ആദ്യ ആഴ്ചയിലെ പാഠം അവസാനിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യ ആഴ്ചയിലെ മൊഡ്യൂൾ 6 ലാണ് ഇത് കോഴ്സിന്റെ ലെക്ചർ 6 ആണ് ഈ മൊഡ്യൂളിൽ ഞാൻ പ്രചോദനത്തെക്കുറിച്ചുള്ള രണ്ട് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു ഒന്ന് ആവശ്യകത നേട്ട സ്വഭാവം മറ്റൊന്ന് ആത്മീയ ബുദ്ധിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവസാന പ്രഭാഷണം പോലെ നിങ്ങൾക്ക് ഹൈലൈറ്റുകൾ വളരെ വേഗത്തിൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലും നിങ്ങളുടെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നതിലും ഞാൻ പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിന്നെ അതിനെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ മികവ് നിർവചിക്കാൻ തുടങ്ങി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സവിശേഷതയാണ് മികവ് ഉയർന്ന നിലവാരമുള്ള ഉയർന്ന നിലവാരമുള്ള വളരെ നല്ല ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുക ഇപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു മികച്ചതോ വളരെ നല്ലതോ നല്ലതോ മോശം അല്ലെങ്കിൽ ശരാശരി എന്ന് സ്വയം വിലയിരുത്തുക നിങ്ങളെക്കുറിച്ചുള്ള ഓരോ സത്യസന്ധമായ റേറ്റിംഗും അതും ഞാൻ നിർദ്ദേശിച്ചു നിങ്ങളെ റേറ്റ് ചെയ്യാൻ നിങ്ങൾ ആരോടെങ്കിലും ആവശ്യപ്പെടുന്നു ഒരേ സമയം ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങളെ റേറ്റ് ചെയ്യുക നിങ്ങളുടെ ചിലത് റേറ്റ് ചെയ്യുക നിങ്ങൾ യഥാർത്ഥത്തിൽ മികവ് പുലർത്തുന്ന സവിശേഷമായ സാധ്യതകൾ ആ ഗുണങ്ങളിൽ ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു ഇപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്തുവെന്നും എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഞാൻ അനുമാനിക്കുന്നു അത് നിങ്ങളിൽ വളരെ സവിശേഷമാണ് നിങ്ങളുടെ അതുല്യമായ കഴിവ് ഒരിക്കൽ നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ ഞാൻ നിർദ്ദേശിച്ചു ആന്തരിക കാമ്പ് ശക്തിപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് മികവ് പിന്തുടരാൻ കഴിയണം ആന്തരിക കാമ്പിന്റെ കാര്യത്തിൽ ഞാൻ സവിശേഷതകൾ തിരിച്ചറിയുക മാത്രമാണ് ചെയ്തത് നിങ്ങൾ വികസിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആന്തരിക കാമറയെയും ആ സവിശേഷതകളെയും ശക്തിപ്പെടുത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാതാക്കേണ്ടതുണ്ട് കാരണം അവ നിങ്ങളുടെ ആന്തരിക കാമ്പ് ദുർബലപ്പെടുത്തുന്നത് തുടരും അടിസ്ഥാനപരമായി ഞാൻ ഒരു വശത്ത് സമൃദ്ധിയുടെ നിയമം മറുവശത്ത് ഞാൻ സംസാരിക്കുകയായിരുന്നു ഭയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന മനസ്സിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഈ വശത്ത് നിങ്ങൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ധൈര്യം ദൃഢവിശ്വാസം വിശ്വാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മുതലായവ പിന്നെ നിങ്ങൾ ഭയത്തിൽ നിന്ന് എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ തുടർന്ന് ഖേദം ഈ വശത്ത് അത് നിങ്ങളുടെ ആന്തരിക കോർ ദുർബലപ്പെടുത്താൻ പോകുന്നു ഈ വശം ധൈര്യത്താൽ നിർമ്മിച്ചതും തീർച്ചയായും പൂർത്തീകരണത്തിന്റെ കാര്യത്തിൽ അവസാനിക്കുന്നതുമാണ് ശരി അതിനുശേഷം ഞാൻ നിങ്ങളോട് പ്രോസസ്സിംഗ് എക്സലൻസിനെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു നിങ്ങൾ അത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു നിങ്ങൾ എങ്ങനെ മികവ് പ്രോസസ്സ് ചെയ്യുന്നു ആദ്യ ഭാഗം നിങ്ങൾ സമൂലമായ മാറ്റം വരുത്തേണ്ടതുണ്ട് അതായത് നിങ്ങൾ ഒരു ഷിഫ്റ്റ് നടത്തേണ്ടതുണ്ട് ഒരു മാതൃക മാറ്റം നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു ആരംഭിക്കുന്നതിലൂടെ വെല്ലുവിളി നിറഞ്ഞ ജോലി നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ നിരന്തരം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് തുടങ്ങി സമൂലമായ മാറ്റവും നിരന്തരമായ പുരോഗതിയും ഇവ രണ്ടും മികവിലേക്ക് എത്താൻ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ആരംഭിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നീങ്ങേണ്ടതുണ്ട് ഒരു ദർശനവും തുടർന്ന് ഒരു ദൌത്യവും തുടർന്ന് നിങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടായിരിക്കണം ഞാൻ പൂർത്തിയാക്കിയ സ്വയം യാഥാർത്ഥ്യമായ ഘട്ടത്തിലെത്താനുള്ള ദർശനങ്ങളും ദൌത്യങ്ങളും പ്രഭാഷണം തുടർന്ന് ഞാൻ ആ ഘട്ടത്തിൽ തുടരാൻ പോകുന്നു ഇപ്പോൾ എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ സ്വയം യാഥാർത്ഥ്യമാക്കലാണ് വളർച്ചയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ഓർക്കുക നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങളും തുടർന്ന് വളർച്ചാ ആവശ്യങ്ങളുമുണ്ട് നമ്മളിൽ ഭൂരിഭാഗവും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർത്തുന്നു പക്ഷേ നമ്മിൽ ചിലർ വളർച്ചാ ആവശ്യത്തിലെത്തുന്നു പിന്നെ നിങ്ങൾ വളർച്ചാ ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്ക പ്രചോദനങ്ങളും ആന്തരികമാണ് അവ ആന്തരികമാണ് നിങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾ സുരക്ഷാ ആവശ്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്ക പ്രചോദനങ്ങളും പുറത്തുനിന്നാണ് വരുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്നത് തുടരും എന്നാൽ ഈ ആന്തരികവും ആന്തരികവുമായ ഒന്ന് ഉണ്ടെന്ന് ഓർമ്മിക്കുക അതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ആന്തരിക കാമ്പ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്വയം യാഥാർത്ഥ്യമാക്കൽ യഥാർത്ഥത്തിൽ ഒരാളുടെ സാധ്യതയുള്ള സവിശേഷത യാഥാർത്ഥ്യമാക്കുന്നതിനെയും സ്വയം പൂർത്തീകരണം തേടുന്നതിനെയും സൂചിപ്പിക്കുന്നു എല്ലാവരും അങ്ങനെയല്ലെന്ന് മാസ്ലോ പറയുന്നു എന്നത് ശ്രദ്ധേയമായിരുന്നു ആളുകൾക്ക് ഇത് നേടാൻ കഴിയും എന്നാൽ ഞാൻ അവസാന പ്രഭാഷണം അവസാനിപ്പിച്ച പോയിന്റ് കുറച്ച് ആളുകൾ മാത്രമേ പൂർണ്ണമായും ആത്മസാക്ഷാത്കാരം നേടുന്നുള്ളൂവെങ്കിലും അത് ആഗ്രഹിക്കേണ്ടത് പ്രധാനമാണ് യാഥാർത്ഥ്യബോധമില്ലാത്തവരും യാഥാർത്ഥ്യബോധമില്ലാത്തവരുമായ ആളുകൾ എന്ന നിലയിൽ അവരുടെ ജീവിതത്തിലുടനീളം അസന്തുഷ്ടരായിരിക്കുക നിങ്ങൾ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ മാസ്ലോയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ അസന്തുഷ്ടനായിരിക്കും നിങ്ങൾ ഖേദകരമായ ജീവിതം നയിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം ആരും അത്തരം ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും മികവ് കൈവരിക്കാനും സ്വയം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാനും ശ്രമിക്കാം ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ ദി അച്ചീവിംഗ് സൊസൈറ്റി എന്ന പുസ്തകത്തിൽ ഡേവിഡ് മക്ലെലാൻഡ് അവതരിപ്പിച്ച മറ്റൊരു ആശയം നോക്കാം എന്നാൽ ഇത് നിങ്ങൾ എബ്രഹാം മാസ്ലോവിൽ നിന്ന് എടുത്ത ഒരു തരം സത്തിൽ നിന്നാണ് ഇപ്പോൾ 5 ഘട്ടങ്ങളിൽ അവരോട് സംസാരിക്കുന്നതിനുപകരം അദ്ദേഹം ആവശ്യങ്ങൾ 3 ആവശ്യങ്ങളായി ചുരുക്കി ക്രിസ്റ്റലൈസ് ചെയ്തു ഇതിനെ 3 നീഡ് സിദ്ധാന്തം എന്നും വിളിക്കുന്നു തുടർന്ന് അദ്ദേഹം പറഞ്ഞു ആളുകൾ 3 അടിസ്ഥാന ആവശ്യങ്ങളാൽ നിരന്തരം നയിക്കപ്പെടുന്നു ഒന്നുകിൽ അത് ചിലതിൽ ആധിപത്യം പുലർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെയല്ല ആധിപത്യം പുലർത്തുന്നു എന്നാൽ ഈ ഡ്രൈവുകളിൽ ഒന്നോ രണ്ടോ എണ്ണമെങ്കിലും നിങ്ങൾ കാണുന്നു ഇപ്പോൾ ആ 3 ഡ്രൈവുകൾ എന്തൊക്കെയാണ് ആദ്യം ജനങ്ങൾക്ക് അധികാരത്തിനായുള്ള ഈ ഉദ്യമമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അധികാരത്തിനുള്ള പ്രചോദനം അഫിലിയേഷനുള്ള പ്രചോദനം അതേ സമയം ആളുകൾ നേട്ടത്തിനുള്ള ഈ ആവശ്യം നേട്ടത്തിനുള്ള പ്രചോദനം അതിനാൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം 3 ആവശ്യ സിദ്ധാന്തമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ നേട്ടങ്ങളുടെ പ്രചോദനമാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ മനോഹരമായി നിക്ക് നാമകരണം ചെയ്യുകയും എൻ ആച്ച് സ്വഭാവം എന്ന് വിളിക്കുകയും ചെയ്യുന്നു ആവശ്യമുള്ള നേട്ട സ്വഭാവം എൻ ആക് സ്വഭാവമാണ് മറ്റ് 2 എണ്ണം അധികാരത്തെ അധികാര പ്രചോദനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എൻ പൌ എന്നും തുടർന്ന് അഫിലിയേഷൻ പ്രചോദനം എൻ അഫിൽ എന്നും ചുരുക്കിപ്പറയുന്നു എന്നാൽ ഞങ്ങളുടെ കോഴ്സിനായി പ്രത്യേകിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം മാസ്ലോയുടെ ബന്ധത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടെങ്കിലും അത് നടുവിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങളെ വൈകാരികമായി ബാധിക്കുന്ന ഗ്രൂപ്പിനോടൊപ്പമുള്ള നിങ്ങളുടെ വികാരമാണ് അഫിലിയേഷൻ ശരി നിങ്ങൾ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു തുടർന്ന് നിങ്ങളും ആരെയെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ബന്ധം മറ്റൊരു ശക്തി അതിനാൽ മാസ്ലോ ഹൈലൈറ്റ് ചെയ്തില്ല അത്രയേ ഉള്ളൂ പക്ഷേ അപ്പോൾ ഡേവിഡ് മക്ലെലാൻഡ് പറയുന്നത് ചില ആളുകൾ അധികാരത്താൽ നയിക്കപ്പെടുന്നവരാണെന്ന് ഇപ്പോൾ അധികാരം രണ്ട് തരത്തിലും ഉപയോഗിക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അധികാരം ഉപയോഗിക്കാം മറ്റുള്ളവർക്കായി അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ഭീഷണിപ്പെടുത്താനും ആധിപത്യം സ്ഥാപിക്കാനും നിങ്ങൾക്ക് അധികാരം ഉപയോഗിക്കാം എന്നാൽ സ്വയം പൂർത്തീകരണം സ്വയം യാഥാർത്ഥ്യമാക്കൽ എന്നിവയുടെ കാര്യത്തിൽ നിങ്ങൾ ആവശ്യകതയുടെ നേട്ട സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ആവശ്യമുള്ള നേട്ടം മെച്ചപ്പെട്ട എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹമാണ് ആവശ്യം അത് സ്വയം യാഥാർത്ഥ്യത്തിൽ നിന്ന് എടുക്കുന്നു മെച്ചപ്പെട്ട എന്തെങ്കിലും ചെയ്യാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സങ്കീർണ്ണവും വളരെ സങ്കീർണ്ണവുമായ ജോലികളിൽ പ്രാവീണ്യം നേടാനോ ഉള്ള ആഗ്രഹമാണിത് അതിനാൽ നിങ്ങൾക്ക് ഒരു ആവശ്യ നേട്ട സ്വഭാവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ലളിതമായ പ്രശ്നങ്ങളിൽ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് വളരെ സങ്കീർണ്ണമായ എന്തെങ്കിലും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് സ്വയം പൂർത്തീകരണം നേടുന്നു ഇപ്പോൾ നേട്ടങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചും കൂടുതൽ നിങ്ങൾക്ക് ഈ ആവശ്യ നേട്ടം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് അവ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാണ് വികസിപ്പിക്കുക നിങ്ങൾക്ക് എങ്ങനെ ആവശ്യമുള്ള നേട്ട സ്വഭാവവുമായി സമന്വയിപ്പിക്കാൻ കഴിയും ഇപ്പോൾ അതിനെ പൊതുവെ നിർവചിച്ചിരിക്കുന്നത് നന്മയ്ക്കായി പ്രവർത്തിക്കാനുള്ള ആഗ്രഹമായാണ് വ്യക്തിപരമായ നേട്ടത്തിന്റെ ആന്തരിക വികാരം നന്നായി ചെയ്യാനുള്ള ആഗ്രഹമോ ആവശ്യമോ ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് അതിനായി വ്യക്തിപരമായ നേട്ടത്തിന്റെ ആന്തരിക വികാരം മികവ് പുലർത്താനുള്ള പൊതുവായ ആഗ്രഹം അത്രയേ ഉള്ളൂ മികവ് പുലർത്തേണ്ടതിന്റെ ആവശ്യകത മാത്രം വിശപ്പും മറ്റ് വൈകാരിക ആവശ്യങ്ങളും പോലെയല്ല ഇത് ആവശ്യമുണ്ട് പക്ഷേ ഒരു ആവശ്യമുണ്ട് അദ്ദേഹം പറയുന്നു ഓരോ മനുഷ്യരിലും അത് വ്യക്തിയെ സൃഷ്ടിക്കുന്നു അവൻ അല്ലെങ്കിൽ അവൾ മികവ് പുലർത്തണമെന്നും അത് നേട്ടത്തിന്റെ സ്വഭാവമാണെന്നും തോന്നുന്നു ഒരു കൂട്ടം മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷ്യം കൈവരിക്കുക നിങ്ങൾ ഒരു തലത്തിലെത്തുകയും തുടർന്ന് ഉയർന്ന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്നു ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലാതെ മറ്റ് ചില ആളുകൾ നിശ്ചയിച്ചിട്ടുള്ള ഉപ മാനദണ്ഡങ്ങൾ എന്നാൽ നിങ്ങൾ സ്ഥാപിച്ച നിങ്ങളുടെ സ്വന്തം ഉയർന്ന മാനദണ്ഡങ്ങൾ അതിനാൽ നിങ്ങൾക്ക് സാധുതയില്ല നിങ്ങൾക്ക് അംഗീകാരമില്ല മറ്റുള്ളവർ അവരുടെ നിബന്ധനകൾക്കനുസൃതമായി എന്നാൽ നിങ്ങൾ സ്വയം സാധൂകരിക്കുന്നു ആവശ്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തലമാണിത് ഇപ്പോൾ ഈ ആവശ്യമുള്ള നേട്ട സ്വഭാവമുള്ള ഈ വ്യക്തിയെ വേർതിരിക്കുന്ന മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ് അവരെക്കുറിച്ച് ചിന്തിക്കുക സ്വയം ചോദിക്കുക നിങ്ങൾക്ക് സ്വഭാവസവിശേഷതകൾ ഉണ്ടോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മപരിശോധന നടത്താൻ കഴിയുമോ നിങ്ങൾക്ക് ഉള്ളിൽ എത്താൻ ശ്രമിക്കാമോ നിങ്ങൾക്ക് അത് പുറത്തെടുക്കാൻ ശ്രമിക്കാമോ നിങ്ങൾ ഒരു മഞ്ഞുമല പോലെയാണ് നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പെരുമാറ്റം വരുന്നത് നിങ്ങളുടെ ആന്തരികതയിൽ നിന്നാണ് ശരി നിങ്ങൾക്കുള്ള വിശ്വാസങ്ങളും വിശ്വാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അകത്തേക്ക് പോകാനും തുടർന്ന് നിങ്ങളുടെ ചിന്തകൾ കുഴിച്ചെടുക്കാനും കാണാനും കഴിയും നിങ്ങൾക്ക് ഈ സ്വഭാവസവിശേഷതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാൻ സത്യസന്ധമായി ശ്രമിക്കാമോ ഈ സ്വഭാവവിശേഷങ്ങൾ വികസിപ്പിക്കാൻ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം അത് ഓരോ വ്യക്തിയിലും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നതിനാൽ ഇത് സാധ്യമാണ് ചിലരിൽ ഇത് പ്രവർത്തനരഹിതമാണ് തുടർന്ന് ഈ തലത്തിലെത്താൻ ആളുകൾ യഥാർത്ഥത്തിൽ സ്വയം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ചില ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും അവ നേടിയെടുക്കാനുമുള്ള ശക്തമായ ആവശ്യം സാധാരണ ലക്ഷ്യങ്ങളിൽ അവർ സംതൃപ്തരല്ലെങ്കിലും വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങൾ വെക്കാൻ അവർ ആഗ്രഹിക്കുന്നു കണക്കാക്കിയ അപകടസാധ്യതകൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എടുക്കാൻ അവർ ഭയപ്പെടുന്നില്ല അപകടസാധ്യതകൾ പക്ഷേ അവർ വളരെ ജ്ഞാനികളും ബുദ്ധിമാന്മാരുമാണ് അവർ കണക്കാക്കിയ അപകടസാധ്യതകൾ എടുക്കുന്നു അവർ ശുഭാപ്തിവിശ്വാസമുള്ളവരും നിരന്തരമായ മെച്ചപ്പെടുത്തലിനായി പ്രതികരണം തേടാൻ ശ്രമിക്കുന്നവരുമാണ് അവർ വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ല ആളുകൾ അത് നൽകിയാൽ അവർ അത് എടുക്കുകയും തുടർന്ന് അവർ കൂടുതൽ വികസിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഒരു ഭീഷണിപ്പെടുത്തുന്ന കാര്യമായി കാണുന്നില്ലെങ്കിലും സ്വയം കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമായി ഇതിനെ കാണുന്നു ഈ മാനദണ്ഡം മതിയെന്ന് നിങ്ങൾ പറഞ്ഞാലും അവർ എല്ലായ്പ്പോഴും കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുന്നു മെച്ചപ്പെട്ട തലത്തിലെത്താൻ അവർ ആഗ്രഹിക്കുന്നു അവർ ഒരു ലെവൽ ഉയർന്നാൽ അവർ വീണ്ടും മികച്ച രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എൻ ആക് സ്വഭാവമുള്ള വ്യക്തികളെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ സവിശേഷത യഥാർത്ഥത്തിൽ സ്വയം യാഥാർത്ഥ്യമാക്കിയ വ്യക്തികൾക്ക് സമാനമാണ് ഈ ആളുകൾക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും അവർ സ്വതന്ത്രരാണ് അതിനാൽ അവർ അത്ര ആശ്രയിക്കുന്നില്ല ശരി അവർ സുരക്ഷിതരാണ് അവർക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നില്ല ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ അവർ ഭയപ്പെടുന്നില്ല ഭൌതികമോ സാമ്പത്തികമോ ആയ പ്രതിഫലത്തേക്കാൾ പ്രധാനമാണ് നേട്ടം അതിനാൽ സമ്മാനം അല്ലെങ്കിൽ സമ്മാനം പോലുള്ള ബാഹ്യ പ്രതിഫലം അവരെ വിഷമിപ്പിക്കുന്നില്ല പണമോ ഏതെങ്കിലും തരത്തിലുള്ള ഭൌതിക പ്രതിഫലമോ അവരെ സ്വാധീനിക്കാൻ പോകുന്നില്ല പക്ഷേ ഞാൻ ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നതുപോലെ ആ ലക്ഷ്യം നിറവേറ്റാൻ ഞാൻ ശ്രമിക്കുന്നു ആ നിലവാരവും ഞാനും അത് കൈവരിച്ചു അതിനാൽ ആ വികാരം അത് അവർക്ക് കൂടുതൽ വ്യക്തിപരമായ സംതൃപ്തി നൽകുന്നു മറ്റേതെങ്കിലും മനുഷ്യൻറെയോ പ്രപഞ്ചത്തിലെ മറ്റെന്തെങ്കിലുമോ ഉള്ള മറ്റേതെങ്കിലും അംഗീകാരം അത് അവർക്ക് ഉള്ളിൽ വ്യക്തിപരമായ സംതൃപ്തി അനുഭവപ്പെടേണ്ടത് പ്രധാനമാണ് ആന്തരികമായി പ്രചോദിതരായ ആളുകളാണ് ഇവർ നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഈ ആന്തരിക സ്വഭാവങ്ങളെക്കുറിച്ച് കൂടുതൽ കാരണം നിലവിൽ നിങ്ങളിൽ ഭൂരിഭാഗവും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാം ഒരു മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുക എത്തിച്ചേരുക തുടങ്ങിയ പ്രചോദനത്തിന്റെ ബാഹ്യ ഘടകങ്ങൾ ഏറ്റവും ഉയർന്ന തലത്തിൽ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു സമ്മാനം ലഭിക്കും അത് കുഴപ്പമില്ല ശരി എന്നാൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങളുടെ മൂല്യം കാണുന്നതിന് മാത്രമാണ് അത് നിങ്ങളുടെ വ്യക്തിപരമായ സംതൃപ്തിക്ക് മാത്രമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ആ എൻ ആക് സ്വഭാവം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ആളുകൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു അപ്പോൾ അവരുടെ സ്ഥിരോത്സാഹം വളരെ ഉയർന്നതാണ് അവ കൂടുതൽ കാലം നിലനിൽക്കും അതിനാൽ എല്ലാവരും തങ്ങൾ സ്വയം അവസാനിപ്പിക്കുമെന്ന് കരുതുന്നുവെങ്കിൽ പക്ഷേ പിന്നെ അവർ കൂടുതൽ സമയം കാത്തിരിക്കുകയും കൂടുതൽ സമയം ജോലി ചെയ്യുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നു അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവർ മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയില്ല അവരുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയില്ല അവർ അവരുടെ മേലധികാരിയെ കുറ്റപ്പെടുത്തുകയില്ല അവർ കുറ്റപ്പെടുത്തുകയുമില്ല സാഹചര്യം അവർ ഒന്നിനെയും കുറ്റപ്പെടുത്തുകയില്ല ഞാൻ ജോലി ചെയ്യണമെന്ന് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ കൂടുതൽ കഠിനമായി ഞാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തണം അവസാനമായി ഞാൻ പറഞ്ഞതുപോലെ അവർ വളരെ ആന്തരികമായി പ്രചോദിതരാണ് ഇപ്പോൾ ഈ ആഴ്ചയിലെ സമാപന ചിന്തയിലേക്ക് വരുന്നു തുടർന്ന് ഒരുതരം അടിസ്ഥാന ചിന്ത ഈ കോഴ്സിലുടനീളം നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കലും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വ്യക്തിത്വം മൃദുവായ കഴിവുകൾ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു തുടർന്ന് നിങ്ങൾ കൈകോർക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് ഈ ആന്തരിക കാമ്പ് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അവ ഒരു അർത്ഥത്തിൽ വളരെ സ്വമേധയാ യാന്ത്രികമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അതിനാൽ നിങ്ങൾ ആരെയെങ്കിലും അനുകരിക്കാൻ ശ്രമിക്കുന്ന സമീപനമല്ല ഞാൻ ഉപയോഗിക്കുന്നത് മറ്റാരെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് പിന്തുടരുക എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സ്വാഭാവികമായ സ്വതസിദ്ധമായ സ്വഭാവം പുറത്തെടുക്കുക ഇപ്പോൾ ഞാൻ നിങ്ങളെ അതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും വൈകാരികവും ആത്മീയവുമായ തലത്തിലേക്കുള്ള ബുദ്ധിപരമായ തലത്തിന്റെ സാധാരണ ഉപഭോഗം അതിനാൽ പൊതുവായ ചിന്താഗതിയുടെ കാര്യത്തിൽ ആളുകൾ തുടക്കത്തിൽ അത് ശാരീരിക ശക്തിയാണെന്ന് കരുതി പ്രധാനമാണ് അതിനാൽ അവർ ഫിസിക്കൽ കോഷ്യന്റ് പിക്യുവിന് വളരെയധികം ഊന്നൽ നൽകുന്നു പിന്നെ ഒരു കാലം വന്നു ഏതാണ്ട് 60കളിൽ ആളുകൾ തുടങ്ങി ശരി എന്ന് പറഞ്ഞാൽ ഇല്ല ഇത് ഇതല്ല മറിച്ച് ഇന്റലിജൻസ് ക്വോഷന്റ് ആണ് ഇപ്പോൾ അത് വളരെക്കാലം ആധിപത്യം പുലർത്തിയിരുന്നു അതിനുശേഷം ഡാനിയൽ ഗോൾമാന്റെ പുസ്തകത്തിൽ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് അത് ഒരു വഴിത്തിരിവായിരുന്നു അത് ഒരു പോയിന്റ് ആക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിയല്ല നിങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഒരു സ്ഥാനത്ത് എത്തും പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അത് തുടരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലനിർത്താനും കൂടുതൽ വളരുകയും ചെയ്യണമെങ്കിൽ അത് നിങ്ങളെ തുടരാൻ പ്രേരിപ്പിക്കുന്ന ബുദ്ധിയല്ല കൂടാതെ നിങ്ങൾക്ക് വൈകാരിക ബുദ്ധി ആവശ്യമാണ് തുടർന്ന് ദാന സോഹറും മറ്റുള്ളവരും ആത്മീയ ബുദ്ധി എന്ന പദങ്ങൾ അവതരിപ്പിച്ചു വൈകാരിക ബുദ്ധിയിൽ നിന്ന് ഒരു പടി കൂടി അകലെയാണെന്ന് അവർ പറഞ്ഞു അത് വെറും വികാരമല്ല എന്നാൽ അത് നിങ്ങളുടെ ആന്തരിക കാമ്പിൽ നിന്ന് പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കാനും ശ്രമിക്കുന്നു ആത്മാവ് അതിൻറെ ആത്മീയ ഭാഗം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ആന്തരിക ബന്ധം വികസിപ്പിക്കുക ഉപയോഗിക്കുക നിങ്ങളുടെ ജ്ഞാനം ആളുകളുമായി ബന്ധപ്പെടാൻ നിങ്ങളുടെ അനുകമ്പ ഉപയോഗിക്കുക അവർ പറയുന്നു അത് ആത്മീയമാണ് കോഷ്യന്റ് അതായത് മുകളിൽ ഇപ്പോൾ സൌകര്യത്തിനുവേണ്ടി ഫിസിക്കൽ കോഷ്യന്റ് ആണെന്ന് കാണിക്കാൻ ഞാൻ ശ്രമിച്ചു താഴെ തുടർന്ന് ഇന്റലിജൻസ് കോഷ്യന്റ് വരുന്നു തുടർന്ന് വൈകാരിക കോഷ്യന്റ് മുകളിൽ നിങ്ങൾക്ക് ആത്മീയ ഭാഗമുണ്ട് താഴെ നിങ്ങൾക്ക് ഫിസിക്കൽ കോഷ്യന്റ് ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ദൃശ്യവൽക്കരിക്കാനുള്ള ശരിയായ മാർഗ്ഗം അതായത് ആത്മീയ ഘടകം അടിസ്ഥാനത്തിലാണ് പിന്നെ നിങ്ങൾക്ക് ഒരു വശത്ത് ഭൌതികതയുണ്ട് കോഷ്യന്റ് മറുവശത്ത് ഇന്റലിജന്റ് കോഷ്യന്റ് എന്നാൽ മറുവശത്ത് അത് വൈകാരിക കോഷ്യന്റ് ആണ് എന്നാൽ മൂന്നും യഥാർത്ഥത്തിൽ ആത്മീയ ഘടകത്താൽ നിയന്ത്രിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ഒരു തരം ശ്രേണിയല്ല മറിച്ച് സമഗ്രമായ ഒരു ചിന്തയാണ് അത് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നോക്കുന്നതിനുപകരം മുഴുവൻ തലച്ചോറിലും പ്രവർത്തിക്കുന്നു അത് ഇടത്തോട്ടോ വലത്തോട്ടോ ആകട്ടെ അത് ജീവിതത്തെ സമഗ്രമായി നോക്കുന്ന രീതിയാണ് ഇപ്പോൾ ഈ പദം ഏകദേശം 1997 ൽ ദാന സോഹർ അവതരിപ്പിച്ചു പക്ഷേ അത് കൂടുതലായിരുന്നു SQ കണക്റ്റിംഗ് വിത്ത് ഔർ സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന പുസ്തകം ജനപ്രിയമാക്കി ഇപ്പോൾ പുസ്തകത്തിൽ ദാന സോഹർ 12 അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഈ ആത്മീയ ഘടകമുള്ള ഒരാളുടെ സവിശേഷതയാണ് പക്ഷേ അത് ആ ആളുകളുടെ സ്വഭാവം മാത്രമല്ല മറിച്ച് നമ്മുടെ സ്വന്തം എസ്ക്യു വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സ്വഭാവസവിശേഷതകൾ എന്തൊക്കെയാണെന്നും ഇത് നമ്മോട് പറയുന്നു നമുക്ക് ഈ പന്ത്രണ്ട് സ്വഭാവവിശേഷങ്ങൾ പരിശോധിച്ച് അവയെക്കുറിച്ച് ചിന്തിക്കാം ആദ്യത്തേത് അവർ ചൂണ്ടിക്കാണിക്കുന്നു ഫീൽഡ് സ്വാതന്ത്ര്യമാണ് ഫീൽഡ് സ്വാതന്ത്ര്യം എന്നാൽ ജനക്കൂട്ടത്തിനെതിരെ നിൽക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഒരാളുടെ സ്വന്തം ബോധ്യങ്ങൾ ആ വ്യക്തി എന്തു ചെയ്താലും അവനെ ബാധിക്കില്ല മറ്റാരെങ്കിലും എന്തു പറയുമെന്ന് ഭയപ്പെടുന്നു ഇത് അങ്ങനെയല്ല നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല അത് പ്രശ്നമല്ല ഞാൻ സ്വതന്ത്രനായതിനാൽ നിങ്ങൾ പറയുന്നതെന്തും ഞാൻ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് എന്റെ സ്വന്തമായ ആന്തരിക കോഡുകൾ അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഫീൽഡ് സ്വാതന്ത്ര്യം അവൾ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ സ്വഭാവം താഴ്മയും വിനയവും ആണ് ലോകത്തിലെ ഒരാളുടെ യഥാർത്ഥ സ്ഥാനത്തിന്റെ ഒരു വലിയ നാടകത്തിൽ ഒരു കളിക്കാരൻ എന്ന തോന്നൽ പോലെ ഞാൻ ലോകത്തെ കീഴടക്കിയ ആളല്ല മറിച്ച് ഞാൻ ഞാൻ ലോകത്തിൻറെ വളരെ ചെറിയ ഭാഗമാണ് പിന്നെ ഞാൻ ഈ ബന്ധങ്ങളുടെ ശൃംഖലയുടെ ഭാഗമാണ് പിന്നെ ഞാൻ അങ്ങനെയല്ലെന്ന തിരിച്ചറിവ് വലുതാണ് പക്ഷേ ഞാൻ വളരെ ചെറിയ ഭാഗമാണ് പക്ഷേ ചെറുതായിരുന്നിട്ടും ഞാൻ ഇപ്പോഴും പ്രാധാന്യമർഹിക്കുന്നു അതിനാൽ അത്തരം വിനയം പിന്നെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രവണത ഞാൻ ആരാണ് ഞാനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ ഉദ്ദേശ്യം എന്താണ് ഞാൻ രൂപകൽപ്പന ചെയ്ത ഉദ്ദേശ്യത്തിനോ സാധ്യതകൾക്കോ അനുസൃതമായി ഞാൻ ജീവിക്കുന്നുണ്ടോ ഞാൻ കുറഞ്ഞ പ്രകടനം നടത്തുകയാണോ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എവിടേക്കാണ് പോകുന്നത് അതിനാൽ അവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ആവശ്യമാണ് കാര്യങ്ങൾ മനസിലാക്കുകയും അവയുടെ അടിത്തട്ടിലേക്ക് പോകുകയും ചെയ്യുക എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ പുനർരൂപകൽപ്പന ചെയ്യാനുള്ള കഴിവ്ഃ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കുക അല്ലെങ്കിൽ പ്രശ്നം കാണുകയും വലിയ ചിത്രം അല്ലെങ്കിൽ വിശാലമായ സന്ദർഭം കാണുകയും ചെയ്യുക പലപ്പോഴും സാധാരണ വ്യക്തികൾ അല്ലെങ്കിൽ എസ് ക്യു ഇല്ലാത്തവർ ഒരു സാഹചര്യത്തിൽ വൈകാരികമായി കുടുങ്ങിയ അവർ വളരെ സമ്മർദ്ദത്തിലാണ് പക്ഷേ ഒരിക്കൽ അവർ വികസിക്കുന്നു ഈ SQ അവർക്ക് സ്വയം വേർതിരിക്കാൻ കഴിയുമെന്ന അർത്ഥത്തിൽ പുനർരൂപകൽപ്പന ചെയ്യാൻ കഴിയും സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് അത് അകലെ നിന്ന് നോക്കാൻ കഴിയും അവർക്ക് കഴിയും യുക്തിസഹവും വൈകാരികവുമായ ഒരു കാര്യത്തിലെത്താൻ എല്ലാവർക്കും സൌഹാർദ്ദപരമായ ആത്മീയ പരിഹാരം ആശങ്കയുള്ള ആളുകൾ പ്രതികൂല സാഹചര്യങ്ങളുടെ ഗുണപരമായ ഉപയോഗംഃ തെറ്റുകൾ തിരിച്ചടികൾ കഷ്ടപ്പാടുകൾ എന്നിവയിൽ നിന്ന് പഠിക്കുകയും വളരുകയും ചെയ്യുക അതിനാൽ പരാജയം അവരെ തടയില്ല എന്നാൽ പിന്നെ വാസ്തവത്തിൽ ഏത് തരത്തിലുള്ള പ്രതികൂല സാഹചര്യവും ഏത് തരത്തിലുള്ള പരാജയവും അവരുടെ ജീവിതത്തിൽ വരുന്ന അവർ അത് ബാധിക്കപ്പെടാത്ത ഒരു തിരിച്ചുവരവായി ഉപയോഗിക്കും ഏതൊരു തിരിച്ചടിയിലൂടെയും തൊഴിൽബോധംഃ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അവർ ഒരു ജോലി ചെയ്യുന്നത് കുറച്ച് പണം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല അവർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണോ അതിൽ പൂർണ്ണമായും ഏർപ്പെട്ടിട്ടുണ്ടോ എന്നിട്ട് അവർ അത് ചെയ്യുന്നുണ്ടോ ഒരു തൊഴിൽബോധം സേവിക്കാൻ എന്തെങ്കിലും തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നതായി തോന്നുന്നു ജോലി ചെയ്യുന്ന ഒരാളുമായി പ്രവർത്തിക്കുന്നത് ഒരു പദവിയാണെന്ന് അവർ കരുതുന്നു ആരെങ്കിലും ഇത് ഒരു പദവിയാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നത് ഒരു ബഹുമതിയാണ് തുടർന്ന് അവർക്ക് പ്രതിബദ്ധത അനുഭവപ്പെടുകയും അപ്പോൾ തിരികെ നൽകാൻ തോന്നുന്നു അതിനാൽ അവർ അവരുടെ വാച്ച് നോക്കി ജോലി ചെയ്യുന്നില്ല പക്ഷേ അവർ ജോലി ചെയ്യുന്നു വളരെയധികം അഭിനിവേശത്തോടെ അവർ അവരുടെ വാച്ചിൽ നോക്കാൻ മറക്കുന്നു മറ്റ് 6 ഗുണങ്ങൾ എന്തൊക്കെയാണ് സ്വയം അവബോധംഃ വാസ്തവത്തിൽ മാസ്ലോയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഡെനിയൽ ഗോൾമാനും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സ്വയം അവബോധംഃ ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് അറിയുകയും മൂല്യവും എന്നെ ആഴത്തിൽ പ്രചോദിപ്പിക്കുന്നതും അതിനാൽ മുമ്പത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും ഞാൻ നിങ്ങളെ ആഴത്തിൽ പ്രചോദിപ്പിക്കുന്നത് എന്താണെന്നും അത് എന്താണെന്നും തിരിച്ചറിയാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് അലസതയുണ്ടാക്കുകയും നിങ്ങളെ വളരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു ഓടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ അത് സ്വയം അവബോധമാണ് അവൾ സംസാരിക്കുന്ന അടുത്ത സ്വഭാവം സ്വാഭാവികതയാണ് എന്താണത് ഈ നിമിഷത്തിൽ ജീവിക്കുകയും അതിനോടു പ്രതികരിക്കുകയും ചെയ്യുക അവർ ഭൂതകാലത്തിൽ ജീവിക്കുന്നില്ല അവർ ഭൂതകാലത്തിൽ കുടുങ്ങുകയുമില്ല ഭൂതകാലം അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനാൽ അവർ വളരെ ഉത്കണ്ഠാകുലരും സമ്മർദ്ദത്തിലുമാണ് അവർ വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത് അവർ ഓരോ നിമിഷത്തിലും ജീവിക്കുന്നു അവർ അതുമായി വളരെ സ്വമേധയാ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ അവർക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല അവൾ സംസാരിക്കുന്ന അടുത്ത ഗുണം അഭിനയമാണ് തത്വങ്ങളും ആഴത്തിലുള്ള വിശ്വാസങ്ങളും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക കാഴ്ചപ്പാടും മൂല്യവും നയിക്കപ്പെടുക എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത് അതിനാൽ ദർശനവും മൂല്യവും നയിക്കപ്പെടുക എന്നത് ഇതിനകം തന്നെ ഈ ദർശനവും അതിനുശേഷവും ഉള്ളതാണ് അവർ അവരുടെ സ്വന്തം മൂല്യങ്ങളിൽ നിന്ന് നയിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾ നടത്തിയ മുൻ ചർച്ചയ്ക്ക് അടുത്താണ് അവർക്ക് അവരുടേതായ ആന്തരിക കാമ്പ് ഉണ്ട് തുടർന്ന് അവർക്ക് ദർശനമുണ്ട് മറ്റുള്ളവർ എന്തു പറയും എന്നതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല അവർ എന്താണ് ചെയ്യുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഹോളിസംഃ ഹോളിസം എന്നാൽ വലിയ പാറ്റേണുകൾ ബന്ധങ്ങൾ ബന്ധങ്ങൾ എന്നിവ കാണുക ഒരു ബോധം ഉണ്ടായിരിക്കുക സ്വന്തമെന്ന നിലയിൽ കാര്യങ്ങൾ ഭാഗങ്ങളായി കാണുന്നതിനുപകരം അവർ മുഴുവൻ ചിത്രവും കാണാൻ ശ്രമിക്കുന്നു പൂർണ്ണമായ ബന്ധം സഹതാപംഃ വികാരത്തിന്റെ ഗുണവും ആഴത്തിലുള്ള സഹാനുഭൂതിയും ഉണ്ടായിരിക്കുക ആരോ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് പിന്നെ നിങ്ങൾ ആത്മീയമായി ഈ ആളുകളോട് അത്തരമൊരു ചോദ്യം ചോദിച്ചാൽ ഭാഗികമായി അവർക്ക് ഇതിനകം ഉത്തരം അറിയാം കാരണം നിങ്ങൾ ആയിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് അത് അറിയൂ ആരോടെങ്കിലും അനുകമ്പ കാണിക്കുക ആരോടെങ്കിലും അനുകമ്പ കാണിക്കുക നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും അതായത് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിലും നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തിരിച്ചറിയുന്നതിലും ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ആന്തരിക സന്തോഷം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നു അവസാനമായി വൈവിധ്യത്തിന്റെ ആഘോഷം എന്ന് അവർ പറയുന്നു ഇപ്പോൾ ഈ ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർ മുൻവിധികളുള്ളവരല്ല വംശത്തിന്റെ കാര്യത്തിൽ സങ്കുചിതമായ ചിന്തകളാൽ നിർബന്ധിതരാണ് അല്ലെങ്കിൽ നിറം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ ദേശീയത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിരുകൾ വ്യത്യാസങ്ങൾക്ക് അവർ മറ്റുള്ളവരെ വിലമതിക്കുന്നു അവരെ വെറുക്കുന്നില്ല ഈ അർത്ഥത്തിൽ മറ്റുള്ളവർ വ്യത്യസ്തരാണെങ്കിൽപ്പോലും അവർക്ക് അഭിനന്ദിക്കാൻ കഴിയും വ്യത്യാസങ്ങളെ മാനിക്കാൻ അവർക്ക് കഴിയും ആരെങ്കിലും എന്നിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ട് ആരെങ്കിലും മറ്റൊരു ഭാഷ സംസാരിക്കുന്നു വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്നു സംസാരിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ അത് എന്നെ സൃഷ്ടിക്കുന്നില്ല ആ വ്യക്തിയെ വെറുക്കുന്നു അത് ആ വ്യക്തിയെ പരിഹസിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നില്ല ഉയർന്ന എസ് ക്യു ഉള്ള വ്യക്തി വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള വൈവിധ്യം ആഘോഷിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വികസിപ്പിക്കേണ്ട ആത്മീയ മൂലധനത്തെക്കുറിച്ചുള്ള ഈ ആശയത്തോടെയാണ് ഈ ആഴ്ച അവസാനിക്കുന്നത് ആത്മീയ മൂലധനം ആത്മീയ സമ്പത്ത് ആത്മീയ സമ്പത്ത് എന്നിവയെക്കുറിച്ചുള്ള രണ്ട് സമാപന ചിന്തകളും വീണ്ടും ദാന സോഹറിൽ നിന്നാണ് ഇന്റലിജൻസ് വരുന്നത് ആത്മീയ ബുദ്ധി എന്താണെന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ ഒരു അഭിമുഖത്തിൽ അവളോട് ആവശ്യപ്പെട്ടു അതിനാൽ അവൾ ഈ രീതിയിൽ പറഞ്ഞു അവർ പറഞ്ഞു ആത്മീയ ബുദ്ധി ഇപ്പോൾ അതിൽ നിന്ന് ഉയർന്നുവരുന്നതായി ഞാൻ കാണുന്നു നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരവും പ്രാഥമികവുമായ ആവശ്യവും ആഴത്തിലുള്ള അർത്ഥത്തിൻറെയും അനിവാര്യമായ ഉദ്ദേശ്യത്തിൻറെയും അനുഭവവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളും അവ എങ്ങനെ ആഴമേറിയതും ബുദ്ധിപരവും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു എന്നതും ജീവിതവും നമ്മുടെ തീരുമാനങ്ങളെയും അനുഭവങ്ങളെയും ബാധിക്കുന്നു അതിനാൽ ഒരു ആഴത്തിലുള്ള അർത്ഥം തേടുന്നു ഒരു അവശ്യ ഉദ്ദേശ്യവും ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളുമുണ്ട് ഇവ എങ്ങനെ ആഴമേറിയതും ബുദ്ധിപരവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നതുമായ ജീവിതത്തിലേക്ക് നയിക്കുകയും നമ്മുടെ തീരുമാനങ്ങളെയും അനുഭവത്തെയും ബാധിക്കുകയും ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ആഴ്ച അവസാനിക്കാൻ പോകുകയാണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഈ ആഴ്ചയിലെ അവസാന പ്രഭാഷണമാണ് ഒരു ക്വിസ് ഉണ്ടാകും ഒരിക്കൽക്കൂടി പാഠങ്ങളിലൂടെ കടന്നുപോകുക തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുപോലെ ക്വിസിന് തയ്യാറാകുക നിങ്ങൾ ഈ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുകയും തുടർന്ന് ഈ ആഴ്ചയുടെ അവസാനത്തിലേക്ക് നിങ്ങളെ വിടുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് കോഴ്സിലുടനീളം നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മാർഗ്ഗനിർദ്ദേശ തത്വമാണ് ഇത് വീണ്ടും ദാന സോഹറിൽ നിന്നുള്ളതാണ് ആത്മീയ മൂലധനം എന്ന പുസ്തകത്തിൽ അവർ പറയുന്നു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പുസ്തകം വാങ്ങാം പുസ്തകം വാങ്ങാം വായിക്കാം എന്നാൽ ക്വിസിന് വേണ്ടി നമ്മൾ ചർച്ച ചെയ്തതെന്തും അത് മതി ശരി നിങ്ങൾ വീഡിയോ പ്രഭാഷണങ്ങളിലൂടെ കടന്നുപോയാൽ മതി എല്ലാ പ്രഭാഷണങ്ങളും സ്വയംപര്യാപ്തമാണ് ഇത് വായിക്കാൻ നിങ്ങൾ കുറിപ്പുകളോ പുസ്തകങ്ങളോ വാങ്ങേണ്ടതില്ല അത് നിങ്ങളുടെ സ്വന്തം താൽപ്പര്യത്തിൽ മാത്രമാണ് സ്വയം വികസിപ്പിക്കുന്നതിൽ മാത്രം എന്തുതന്നെയായാലും ഞാൻ നിർദ്ദേശിക്കുന്ന അധിക പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങുകയും വായിക്കുകയും ചെയ്യാം ഇപ്പോൾ നമുക്ക് അന്തിമ ചിന്തയിലേക്ക് പോകാം തുടർന്ന് ഞാൻ അത് നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു മെച്ചപ്പെട്ട ആഴമേറിയ കൂടുതൽ ആത്മീയ ബുദ്ധിയുള്ള ആളുകളാകാൻ മനുഷ്യജീവിതത്തിന്റെ ആഴമേറിയ അർത്ഥങ്ങളോട് സംവേദനക്ഷമതയുള്ള നമ്മുടെ അസ്തിത്വത്തിന്റെ ഒരു മാനം നാം വളർത്തണം അവൾ എന്താണ് പറയുന്നത് നമ്മുടെ സത്തയുടെ ഒരു മാനം നാം വളർത്തണം അതിനാൽ നമ്മുടെ സത്തയുടെ ഒരു ഭാഗം നമ്മുടെ സത്തയുടെ ഒരു വശം വളർത്തേണ്ടത് നമ്മൾ പൊതുവെ അവഗണിക്കുന്നു മനുഷ്യജീവിതത്തിൻറെ ഏറ്റവും ആഴമേറിയ അർത്ഥങ്ങളോട് സംവേദനക്ഷമതയുള്ളത് എന്താണ് മനുഷ്യജീവിതത്തിൻറെ ഉപരിപ്ലവമായ അർത്ഥത്തിലല്ല ആന്തരികമായ കാതൽഃ മനുഷ്യജീവിതത്തിൻറെ ഏറ്റവും ആഴമേറിയ അർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റോയുടെ പ്രശസ്തമായ മൂല്യങ്ങളുടെ ത്രികോണത്തോടുള്ള സംവേദനക്ഷമതഃ നന്മ നന്മയെ വിലമതിക്കാനും നന്മയുള്ളവരായിരിക്കാനും മറ്റുള്ളവരിൽ നന്മ കാണാനും മറ്റുള്ളവരിൽ നന്മയെ ആകർഷിക്കാനും പഠിക്കുക രണ്ടാമത്തേത്ഃ സത്യം നുണകൾ പറയുന്നത് നിർത്താൻ തീരുമാനിക്കുക തുടർന്ന് സത്യം അന്വേഷിക്കാനും സത്യം സംസാരിക്കാനും തീരുമാനിക്കുക മൂന്നാമതായി അവൾ പറയുന്നു സൌന്ദര്യവും പ്രശംസഃ സൌന്ദര്യമുള്ള കാര്യങ്ങളോടുള്ള ആദരവ് വളർത്തിയെടുക്കുക ചിട്ടയായ കാര്യങ്ങൾ അടിസ്ഥാനപരമായി നല്ലതും സത്യസന്ധവുമായ കാര്യങ്ങൾ ആ ആഴമേറിയ മൂല്യങ്ങളുടെ സേവനത്തിനുള്ള ആഹ്വാനമായി നാം നമ്മുടെ ജീവിതം ഒരു തൊഴിലായി ജീവിക്കണം അത് ചെയ്യുന്നതിന് മനുഷ്യന്റെ പെരുമാറ്റത്തെ നയിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രചോദനങ്ങളിൽ നിന്ന് നാം പ്രവർത്തിക്കണം ഉയർന്ന പ്രചോദനത്തിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ദാന സോഹർ വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണിത് ഉയർന്ന പ്രചോദനത്തിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ മനസ്സിനെ കുഴപ്പിക്കുന്ന സമ്മർദ്ദമുള്ളതായി കരുതുക അവയ്ക്കെല്ലാം അവയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു അവയ്ക്കെല്ലാം നമ്മുടെ മേലുള്ള സമ്മർദ്ദ പോയിന്റ് നഷ്ടപ്പെടുന്നു അതിനാൽ ഈ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക അത് ചെയ്യുന്നതിന് മനുഷ്യന്റെ പെരുമാറ്റത്തെ നയിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രചോദനങ്ങളിൽ നിന്ന് നാം പ്രവർത്തിക്കണം ഇത് ഒരു ഹ്രസ്വകാല ലക്ഷ്യമല്ല മറിച്ച് ഇത് ഒരു ദീർഘകാല ലക്ഷ്യമാണ് നിശ്ചയദാർഢ്യവും പ്രതിബദ്ധതയും ആവശ്യമുള്ള പദ്ധതി ഇതൊരു ദീർഘകാല പദ്ധതിയാണ് അതിനാൽ കോഴ്സ് ആ പദ്ധതി ആരംഭിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും ഈ പദ്ധതിയിൽ നിങ്ങളെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശകനായി ഞാൻ അവിടെയുണ്ട് പക്ഷേ നിങ്ങൾ അത് ചെയ്യണം അതിന് സ്ഥിരോത്സാഹം ഉദ്ദേശ്യത്തിന്റെ ശക്തി നിശ്ചയദാർഢ്യം ഏറ്റെടുക്കാനുള്ള സന്നദ്ധത എന്നിവ ആവശ്യമാണെന്ന് അറിയുക അപകടസാധ്യത മുതലായവയും പ്രതിബദ്ധതയും കോഴ്സിനോടും എന്നോടുമുള്ള പ്രതിബദ്ധതയല്ല മറിച്ച് നിങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് അതിനാൽ നിങ്ങൾ ഏറ്റെടുത്ത ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് വിജയം നേരുന്നു ആദ്യ ആഴ്ച കഴിഞ്ഞു ഈ പദ്ധതി ഉപയോഗിച്ച് സ്വയം വികസിപ്പിക്കുക വികസിപ്പിക്കുക സോഫ്റ്റ് സ്കിൽസ് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ ഇത് അവസാനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടുന്ന തരത്തിലുള്ള സ്വയം നിറവേറ്റുന്ന അനുഭവം ഈ ആഴ്ചയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി എന്നിട്ട് നമുക്ക് തുടങ്ങാം അടുത്ത ആഴ്ച വ്യക്തിത്വത്തെയും സോഫ്റ്റ് സ്കിൽസിനെയും കുറിച്ചുള്ള പുതിയ ചിന്തകളുമായി വീണ്ടും മടങ്ങിവരിക